പുതിയൊരു മൊഡ്യൂളിലേക്കു സ്വാഗതം കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ട ബാൻഡ് പാസ് ഫിൽറ്ററുകളുടെ തിയറിയുടെ പരീക്ഷണങ്ങളാണ് നാം ഇവിടെ ചെയ്യുക ബാൻഡ് പാസ് ഫിൽറ്റർ എങ്ങനെ രൂപകല്പന ചെയ്യാമെന്ന് നാം കണ്ടു പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്നിവയുടെ രൂപകല്പന നമുക്കറിയാം ശരിയല്ലേ ഹൈ പാസ് ഫിൽറ്ററിനെ ലോ പാസ് ഫിൽറ്ററുമായി കാസ്കേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന ആശയമാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് ഈ പരീക്ഷണങ്ങൾ നടത്തിനോക്കി യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നു നോക്കാം അതിനായി ചിത്രം 15 കാണൂ ഇവിടെ ഹൈ പാസ് ഫിൽറ്ററും ലോ പാസ് ഫിൽറ്ററും നൽകിയിട്ടുണ്ട് C1 R1 R2 C2 എന്നിവയുടെ വാല്യൂകളും നൽകിയിട്ടുണ്ട് അപ്പോൾ സർക്യൂട്ട് കണക്ട് ചെയ്താൽ പാസീവ് ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ പ്രവർത്തനം പഠിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ ആക്ടീവ് കംപോണന്റ് ഒന്നുമില്ലെന്ന് അറിയാമല്ലോ ചിത്രം 15ൽ കാണുന്നതുപോലെ സർക്യൂട്ട് കണക്ട് ചെയ്യുക Vin ൽ നേരിട്ട് 50 ഹെർട്സ് 5 വോൾട്ട് പീക് ടു പീക് അപ്ലൈ ചെയ്യണം ഇനി നോക്കേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫ്രീക്വൻസി 20 ഹെർട്സ് വീതമുള്ള ഘട്ടങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പീക് ടു പീക് ഔട്ട്പുട്ട് വോൾട്ടേജ് കൃത്യമായി എഴുതിവയ്ക്കുക ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയായ 159 ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയായ 1 5 കിലോ ഹെർട്സിലും ഔട്ട്പുട്ട് ആംപ്ലിറ്റിയൂഡ് എന്നിവയുടെ ആകൃതി നിരീക്ഷിക്കുക ഇവിടെ നമ്മൾ രൂപകല്പന ചെയ്തിരിക്കുന്നത് 1 5 കിലോ ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുള്ള ലോ പാസ് ഫിൽറ്ററും 159 ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുള്ള ഹൈ പാസ് ഫിൽറ്ററുമാണ് ഇനി ഈ പ്രത്യേക മാതൃകയിൽ അതായത് പാസീവ് ബാൻഡ് പാസ് ഫിൽറ്ററിൽ ഔട്ട്പുട്ടിൽ എന്താണ് എന്നാണ് നമുക്കു നോക്കേണ്ടത് ബ്രെഡ്ബോർഡിൽ സർക്യൂട്ട് ഒരുക്കി കാണിക്കാനായി നമുക്ക് സീതാറാമിനെ വിളിക്കാം എന്നിട്ട് സർക്യൂട്ട് എങ്ങിനെയിരിക്കുമെന്നു പരിശോധിക്കാം കൂട്ടിയിണക്കി യിരിക്കുന്ന പാസീവ് ഹൈ പാസ് ഫിൽറ്റർ ലോ പാസ് ഫിൽറ്റർ എന്നിവയാണ് നാം കാണുക ഇനി നമുക്ക് ഫ്രീക്വൻസി ജനറേറ്റർ വഴി സിഗ്നൽ അപ്ലൈ ചെയ്യാം ഏതാണ്ട് 49 ഹെർട്സിൽ 5 വോൾട്ട് പീക് ടു പീക് ആംപ്ലിറ്റിയൂഡിലാണ് നാം അത് ഹൈ പാസ് ഫിൽറ്ററിലേക്കുള്ള ഇൻപുട്ടിനായി മുൻകൂട്ടി ഒരുക്കിവച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ലോ പാസ് ഫിൽറ്ററിൽനിന്ന് ആയിരിക്കും അതായത് ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ഇൻപുട്ട് ഹൈ പാസ് ഫിൽറ്ററിന്റെ ഇൻപുട്ടിലേക്കും ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിൽനിന്നും ആയിരിക്കും ചിത്രം കാണുക നാം 5 12 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സിഗ്നലിനെ കടന്നുപോകാൻ അനുവദിക്കാതെ ആ പ്രത്യേക ഫ്രീക്വൻസിയെ തടയുന്നതു കാണാം വളരെ പ്രധാനമായ ഒരു പ്രത്യേക പോയിന്റിലുള്ള ലോഡിംഗ് ഇഫക്ട് കൂടി നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട് 99 ഹെർട്സിൽ ആംപ്ലിറ്റിയൂഡ് എങ്ങനെയിരിക്കുന്നു എന്നു നോക്കൂ ഈ പ്രത്യേക ഫിൽറ്റർ പാസ് ഈ ഫ്രീക്വൻസിയെ കടന്നുപോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇനി നമുക്ക് ഫ്രീക്വൻസി കൂട്ടാം ഒപ്പം പീക് ടു പീക് വോൾട്ടേജും വീണ്ടും കൂട്ടുമ്പോൾ ഏതാണ്ട് 159 ഹെർട്സ് എത്തുമ്പോൾ ഔട്ട്പുട്ടിൽ പെട്ടെന്നൊരു ചാട്ടം നിങ്ങൾക്കു കാണാനാകും നോക്കൂ കടന്നുപോകാൻ അനുവദിക്കുന്ന പരമാവധി ഫ്രീക്വൻസി 159 2 ഹെർട്സ് ആണ് എന്നാൽ ഔട്ട്പുട്ടിലുള്ള 2 4 വോൾട്ട്സ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണിത് നേരത്തേ പറഞ്ഞ ലോഡിംഗ് ഇഫ്ക്ട് ആണ് ഇതിനു പിന്നിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമുക്ക് ഈ ലോഡിംഗ് ഇഫക്ട് ഒഴിവാക്കാനാകും ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ലോഡിംഗ് ഇഫക്ട് പ്രശ്നം കാരണമാണ് മിക്കവാറും ആളുകൾ പാസീവ് ഫിൽറ്ററുകൾ ഉപയോഗിക്കാത്തത് ഇവിടെ നമുക്ക് 1 5 കിലോ ഹെർട്സ് വരെ ഫ്രീക്വൻസി കടത്തിവിടാം അതിനു മുകളിൽ എത്തുമ്പോൾ വോൾട്ടേജ് ഗണ്യമായി കുറയുന്നു അപ്പോൾ ലോ പാസ് ഫിൽറ്ററിനായി സെറ്റ് ചെയ്ത 1 5 കിലോ ഹെർട്സിനു മുകളിൽ ഫ്രീക്വൻസി ഉയർത്തിയാൽ ഫിൽറ്റർ ഉയർന്ന ഫ്രീക്വൻസിയെ തടഞ്ഞുതുടങ്ങും അതൊരു പ്രത്യേക ബാൻഡ് ഫ്രീക്വൻസി മാത്രമേ കടത്തിവിടൂ നേരത്തേ പറഞ്ഞതുപോലെ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ഗണ്യമായ വ്യതിയാനം ലോഡിംഗ് ഇഫക്ട് മൂലം നിങ്ങൾക്കു കാണാനാവില്ല ഇതേ കാരണത്താൽ ഏതു ബാൻഡ് കടന്നുപോകുന്നു ഏതു ബാൻഡ് കടന്നുപോകുന്നില്ല എന്നീ കാര്യങ്ങളും നമുക്ക് മനസിലാക്കാൻ കഴിയില്ല ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആകൃതിയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഇൻപുട്ട് സിഗ്നലിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിൽ ഔട്ട്പുട്ട് സിഗ്നൽ പിന്തുടരുന്നു ലോഡിംഗ് ഇഫക്ട് മൂലം ഏതു ഫ്രീക്വൻസി ബാൻഡിനെയാണ് കടത്തിവിടുന്നത് ഏതിനെയാണ് വിടാത്തത് എന്നു കൃത്യമായി പറയാനാവില്ല ബാൻഡ് പാസ് ഫിൽറ്റർ പരീക്ഷണത്തിനെടുക്കുമ്പോൾ നമ്മുടെ കമന്റ് ഇതായിരിക്കും ഇനി പാസീവ് ബാൻഡ് പാസിനു പകരം നമുക്കൊരു ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിച്ചാലോ അപ്പോൾ എന്താണുണ്ടാവുക ഇവിടെയുള്ള സർക്യൂട്ട് നോക്കൂ ഇവിടെ ഹൈ പാസ് ലോ പാസ് എന്നിവയുണ്ട് R2 R1എന്നിവയുടെ സഹായത്താൽ ആംപ്ലിഫിക്കേഷനുമുണ്ട് ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് R2 ബൈ R1 ആണ് ആംപ്ലിഫിക്കേഷൻ ലോഡിംഗ് ഇഫക്ട് നമുക്ക് കാണാനാവില്ല അപ്പോൾ നമുക്കിത് രൂപകല്പന ചെയ്യാൻ ചിത്രം 16ൽ കാണുന്നതുപോലെ സർക്യൂട്ട് കണക്ട് ചെയ്യണം എന്നിട്ട് ഫ്രീക്വൻസി ജനറേറ്റർ ഉപയോഗിച്ച് ഇൻപുട്ടിൽ സിഗ്നൽ നൽകാം ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസികൾ കണക്കാക്കിയിരിക്കുന്നത് 159 15 ഹെർട്സ് 1 59 കിലോ ഹെർട്സ് എന്നിങ്ങനെയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി f L fH എന്നിവ അറിഞ്ഞാൽ നമുക്ക് V1ൽ 50 ഹെർട്സിന്റെ 5 വോൾട്ട് സൈൻ വേവ് നൽകാം 20 ഹെർട്സ് വീതമുള്ള ഘട്ടങ്ങളായി ഫ്രീക്വൻസി കൂട്ടിക്കൊടുക്കാം ഇനി Vo ൽ ഔട്ട്പുട്ട് നിരീക്ഷിക്കണം പീക് ടു പീക് വോൾട്ടേജ് ഔട്ട്പുട്ട് കുറിച്ചുവയ്ക്കു കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു തുല്യമായ ഒരു ഫ്രീക്വൻസി നമുക്കു കാണാനാവും ആംപ്ലിറ്റിയൂഡ് A√2 ആയിരിക്കും fL നു താഴെയും fH നു മുകളിലുമായി ആംപ്ലിറ്റിയൂഡ് സപ്രസ്സ് ചെയ്യും എന്താണ് ഈ ആംപ്ലിറ്റിയൂഡ് സപ്രഷൻ ശ്രദ്ധിക്കൂ 5 വോൾട്ട് പീക് ടു പീക് വോൾട്ടേജാണ് നാം നൽകുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു മുകളിലും താഴെയുമായി ആംപ്ലിറ്റിയൂഡ് സപ്രസ്സ് ചെയ്യപ്പെടും എന്നു പറഞ്ഞാൽ അത് ഇൻപുട്ട് സിഗ്നൽ ആയി നൽകിയതിനേക്കാൾ കുറഞ്ഞിരിക്കും എന്നാണ് അർത്ഥം ഇനി മറ്റൊരു പോയിന്റുകൂടിയുണ്ട് R1 10 കിലോ ഓം R2 1 കിലോ ഓം എന്നിങ്ങനെയാണ് നമ്മുടെ വശം ഉള്ളത് അപ്പോൾ ഗെയിൻ കണക്കാക്കിയാൽ 0 1 ആയിരിക്കും എനിക്ക് ഗെയിൻ കൂട്ടണമെന്നിരിക്കട്ടെ R2 100 കിലോ ഓം ആയി മാറ്റിവയ്ക്കണം 0 1ൽനിന്ന് ഗെയിൻ 1 അല്ലെങ്കിൽ 10 ആക്കി ഉയർത്തണമെങ്കിൽ R2 വിന്റെ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കണം ഗെയിൻ R2 ബൈ R1 ആണല്ലോ R1 10 കിലോ ഓം ആണെങ്കിൽ ഗെയിൻ 0 R2 10 കിലോ ഓം ആക്കിയാൽ 10 കിലോ ഓം ബൈ 10 കിലോ ഓം എടുക്കുമ്പോൾ ഗെയിൻ 1 R2 100 കിലോ ഓം ആക്കിയാൽ ഗെയിൻ 10 ആകും അതായത് R2 വിന്റെ സഹായത്തോടെ ഗെയിൻ മാറ്റാം അതേസമയം പാസീവ് ഫിൽറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് ഗെയിൻ മാറ്റം വരുത്താൻ സാധിക്കില്ല കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ നമുക്ക് ബ്രെഡ്ബോർഡിൽ സർക്യൂട്ട് യഥാർത്ഥമായി നിർമിച്ചു നോക്കാം 5 വോൾട്ട് പീക് ടു പീക് സൈൻ വേവ് അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന് എന്തു സംഭവിക്കുമെന്നാണ് അറിയേണ്ടത് ബ്രെഡ്ബോർഡുമായി സീതാറാം വീണ്ടും എത്തിയിട്ടുണ്ട് അദ്ദേഹം ബ്രെഡ്ബോർഡിൽ ഒരുക്കിയ ഫിൽറ്റർ നിങ്ങളെ കാണിക്കും നോക്കൂ ഇവിടെ എന്തൊക്കെയാണുള്ളത് ഒരു ഹൈ പാസ് ഫിൽറ്റർ ഒരു ലോ പാസ് ഫിൽറ്റർ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നിവ കാണാം ഇപ്പോൾ നാം ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇൻവെർട്ടിംഗ് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ R1 R2 എന്നിവ ഉപയോഗിച്ച് ഇതിന്റെ ഗെയിൻ മാറ്റാൻ സാധിക്കും തത്ക്കാലം നാം ഗെയിൻ 0 1 എന്ന നിലയിലാണ് വച്ചിട്ടുള്ളത് ഹൈ പാസ് ഫിൽറ്ററിലേക്ക് നാം ഇൻപുട്ട് നൽകുന്നു ലോ പാസ് ഫിൽറ്ററിലാണ് നാം ഔട്ട്പുട്ട് നിരീക്ഷിക്കേണ്ടത് ഇതൊരു ബാൻഡ് പാസ് ഫിൽറ്ററാണ് പാസീവ് ആക്ടീവ് എന്നിവ തമ്മിലുള്ള ഏക വ്യത്യാസം നമുക്കിവിടെ ഒരു ഓപ് ആംപ് ഉണ്ട് ഗെയിനിൽ മാറ്റം വരുത്താൻ കഴിയും എന്നതാണ് നമ്മളിവിടെ ഡിസി പവർ സപ്ലൈയാണ് ഉപയോഗിക്കുന്നത് ഇതുവഴി നാം പ്ലസ് മൈനസ് 15 വോൾട്ട് ബയാസ് വോൾട്ടേജ് ആയി നൽകിയിട്ടുണ്ട് ഫ്രീക്വൻസി 50 ഹെർട്സും ആംപ്ലിറ്റിയൂഡ് 5 വോൾട്ടും നൽകിയിട്ടുണ്ടെന്നു നിങ്ങൾക്കു കാണാം ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓസിലോസ്കോപ്പിൽ നോക്കാം എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓസിലോസ്കോപ്പ് നോക്കൂ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് ലോ ഫ്രീക്വൻസി fL 159 15 ഹെർട്സ് ആയിരുന്നു അതുകൊണ്ട് 50 ഹെർട്സ് കടത്തിവിടില്ല അതിനാൽത്തന്നെ പീക് ടു പീക് വോൾട്ടേജ് 200 മില്ലി വോൾട്ട്സ് ആണ് ഇൻപുട്ട് സിഗ്നലിനെ ഔട്ട്പുട്ടിൽ fL നു താഴെയായി മുഴുവനായി സപ്രസ്സ് ചെയ്തിരിക്കുന്നു fH നു മുകളിലും അതു സപ്രസ്സ് ചെയ്യപ്പെടും ഇനി ഫ്രീക്വൻസി 20 ഹെർട്സ് വീതമുള്ള ഘട്ടങ്ങളായി 50ൽനിന്ന് 70 ഹെർട്സിലേക്ക് ഉയർത്തിനൽകാം ഇപ്പോഴും നോക്കൂ ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയായ fL നു താഴെ സപ്രസ്സ് ചെയ്യപ്പെട്ട നിലയിൽത്തന്നെയാണ് ഇനി ഫ്രീക്വൻസി 90 110 ഹെർട്സ് എന്നിങ്ങനെ ഉയർത്താം നോക്കൂ ഇപ്പോഴും അതിനെ കടന്നുപോകാൻ അനുവദിക്കുന്നില്ല് ഫ്രീക്വൻസി 130 ഉം 150 ഉം ആക്കുമ്പോഴും അതേ അവസ്ഥയാണ് ഇനി 160ലേക്ക് ഉയർത്താം ഗെയിൻ 0 1 എന്ന നിലയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതിനാൽ വോൾട്ടേജ് ഉയരുന്നില്ല എന്നു മനസിലാക്കുക വോൾട്ടേജ് എത്രയായാലും 0 1 കൊണ്ട് ഗുണിക്കുന്നതോടെ ഔട്ട്പുട്ട് കുറയും ഇവിടെ ഗെയിൻ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾക്കു വ്യത്യാസം കാണാം 1 5 കിലോ ഹെർട്സിനു മുകളിലേക്ക് പോകുന്നുവെങ്കിൽ ഗെയിൻ കുറവാണെന്നു കാണാം ഫ്രീക്വൻസി 1 5 കിലോ ഹെർട്സിനു മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നാൽ ഗെയിൻ കുറയുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് പൊടുന്നനെ വീണ്ടും കുറയുകയും ചെയ്യും 220 210 200 എന്നിങ്ങനെയുള്ള വാല്യൂകൾ നോക്കൂ സിഗ്നൽ വീണ്ടും സപ്രസ്സ് ചെയ്യപ്പെടുകയാണ് എന്നാൽ ഞാൻ ഗെയിൻ 1 ആക്കിയാൽ എന്തു സംഭവിക്കും ഇവിടെ നമ്മുടെ വശം ആർ2 1 കിലോ ഓം ആണുള്ളത് R1 10 കിലോ ഓംസ് ആണ് അപ്പോൾ R2 ബൈ R1 0 1 ആണ് അതുകൊണ്ടാണ് ഏതു സിഗ്നൽ കടന്നുപോയാലും ഈ പ്രത്യേക ഫാക്ടർ കൊണ്ട് ഗുണിക്കപ്പെടുന്നത് അതായത് 5 വോൾട്ട്സ് നൽകുമ്പോൾ 0 1 കൊണ്ട് ഗുണിക്കപ്പെട്ടാൽ 0 5 വോൾട്ട്സ് കിട്ടുന്നു വ്യക്തമല്ലേ ഫ്രീക്വൻസി fL നു മുകളിലായിരുന്നപ്പോൾ ഔട്ട്പുട്ട് ഏതാണ്ട് 400 മില്ലി വോൾട്ട്സ് അല്ലെങ്കിൽ 300 മില്ലി വോൾട്ട്സിനു അടുത്തായിരുന്നു fL നും fH നും ഇടയിലായിരുന്ന സമയത്ത് വോൾട്ടേജ് 350 400 മില്ലി വോൾട്ടിനടുത്ത് ആയിരുന്നതും നിങ്ങൾ കണ്ടുകാണും ഇനി ഗെയിൻ ഫാക്ടർ 1 ആക്കുന്നു എന്നിരിക്കട്ടെ അതായത് R2 R1 എന്നിവ 10 കിലോ ഓം വീതമായാൽ ഗെയിൻ 1 ആയിരിക്കുമല്ലോ അപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുമെന്നു നോക്കാം നേരത്തേ ചെയ്തതുപോലെ 5 വോൾട്ട് അപ്ലൈ ചെയ്ത് 50 ഹെർട്സിൽ തുടങ്ങാം ശേഷം 20 ഹെർട്സ് വീതമുള്ള ഘട്ടങ്ങളായി വർധിപ്പിക്കാം ബ്രെഡ്ബോർഡ് ഒന്നുകൂടി നോക്കൂ ടോട്ടൽ വാല്യൂ 10 കിലോ ഓം വരുന്ന റെസിസ്റ്റർ ഇതാണ് ഗെയിൻ 1 കിട്ടുന്നതിനായി 10 കിലോ ഓം ഉള്ള ഒരു റെസിസ്റ്റർ കൂടി വേണ്ടിവരും അതായത് നാം പറഞ്ഞ പോയിന്റ് ഇതാണ് റെസിസ്റ്റർ വാല്യൂ മാറ്റം വരുത്തി ഔട്ട്പുട്ട് സിഗ്നലിലും മാറ്റം വരുത്താം ആംപ്ലിഫയറിന്റെ ഗെയിൻ അടിസ്ഥാനമാക്കിയാണ് ഔട്ട്പുട്ട് ഉണ്ടാകുന്നതെന്ന് മനസിൽ ഉറപ്പിക്കുക അപ്പോൾ ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്നിവയുടെ പരീക്ഷണം നാം കണ്ടു അടുത്ത മൊഡ്യൂളിൽ നാം കാണുന്നത് ബാൻഡ് റിജക്ട് ഫിൽറ്ററാണ് ഫിൽറ്ററുകളുടെ തിയറിയും ലോ പാസ് ഹൈ പാസ് ബാൻഡ് പാസ് ആക്ടീവ് ബാൻഡ് പാസ് പാസീവ് ബാൻഡ് പാസ് എന്നിവയും നാം കണ്ടു ആക്ടീവ് ലോ പാസ് ആക്ടീവ് ഹൈ പാസ് പാസീവ് ഹൈ പാസ് എന്നീ ഭാഗങ്ങളും നാം ചർച്ച ചെയ്തു അടുത്ത ഭാഗവും ഫ്രീക്വൻസിയിൽ അധിഷ്ഠിതമാണ് ലോ പാസ് ഹൈ പാസ് ബാൻഡ് പാസ് എന്നിവ നമുക്ക് ഓർമയുണ്ട് എന്താണ് അതിൽ ബാക്കിയുള്ളത് ബാൻഡ് റിജക്ട് അതായത് ബാൻഡിൽനിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു പ്രത്യേക ഫ്രീക്വൻസി അപ്പോൾ ആ പ്രത്യേക ഫ്രീക്വൻസിയെ റിജക്ട് ചെയ്യണമെങ്കിൽ അതായത് ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു ഫിൽറ്റർ വേണം അങ്ങനെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയെ ഒഴിവാക്കുന്ന ഫിൽറ്ററാണ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് എങ്ങനെ ഈ ബാൻഡ് റിജക്ട് ഫിൽറ്റർ രൂപകല്പന ചെയ്യാം എന്നാണ് നാം നോക്കുന്നത് നമ്മളൊരു പാസീവ് സർക്യൂട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു ലോഡിംഗ് ഇഫക്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം ആക്ടീവ് സർക്യൂട്ട് ഉപയോഗിച്ചാൽ അതുണ്ടാവില്ല ശരിയല്ലേ നാം ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യക്തമാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ യാതൊരു മടിയുമില്ലാതെ ചോദിക്കാം എന്തു ചോദ്യമാണെങ്കിലും ഞാനതിന് ഉത്തരം നൽകാൻ ശ്രമിക്കാം പരീക്ഷിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നു വീണ്ടും പറഞ്ഞുതരാനും ആളുകളുണ്ട് അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ എന്താണ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ എന്നു നോക്കും വീണ്ടും കാണുന്നതു വരെ നമസ്കാരം